ഇതാണ് ബക്ക് കൺവെർട്ടർ ഇപ്പോൾ നമുക്ക് സർക്യൂട്ട് പരിചിതമാണ് ഘടകങ്ങൾ സ്വിച്ച് ഡയോഡ് ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് എന്നിവ റേറ്റ് ചെയ്യേണ്ടതുണ്ട് ഈ നാല് ഘടകങ്ങളാണ് നമുക്ക് രൂപകല്പന ചെയ്യേണ്ടത് ഘടകങ്ങൾ ശരിയായി റേറ്റുചെയ്യുന്നതിന് വളരെ നിർണായകമായ വിവിധ തരംഗ രൂപങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം ഇപ്പോൾ പോൾ വോൾട്ടേജ് VP എന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു തരംഗരൂപമാണ് കാരണം ഈ ഡയോഡിന്റെയും ട്രാൻസിസ്റ്ററിന്റെയും വോൾട്ടേജ് റേറ്റിംഗിനെ റേറ്റുചെയ്യാൻ ഇത് സഹായിക്കും ഇൻഡക്ടറിന്റെ നിലവിലെ തരംഗരൂപം വളരെ നിർണായകമാണ് കാരണം ഈ പ്രത്യേക ടോപ്പോളജിയിൽ ഇത് ഈ ഘടകത്തിലെ ഒരു പ്രധാന ഭാഗമാണ് ഇൻഡക്ടറിലൂടെയുള്ള വൈദ്യുത പ്രവാഹം ഇൻപുട്ടിലെ വൈദ്യുത പ്രവാഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു അതിനാൽ ട്രാൻസിസ്റ്ററിലെ വൈദ്യുത പ്രവാഹത്തെകുറിച്ചും ഫ്രീ വീലിംഗ് കറന്റ് ഇൻഡക്ടറിലൂടെ ഒഴുകുന്നതു കൊണ്ട് ഡയോഡിലെ വൈദ്യുത പ്രവാഹത്തെകുറിച്ചും വിവരങ്ങൾ നൽകുന്നു ഇൻഡക്ടറിലൂടെ ഒഴുകുന്ന കറന്റ് കപ്പാസിറ്റർ കറന്റിലേക്കും ലോഡിലൂടെയുള്ള കറന്റിലേക്കും വിഭജിക്കുന്നു നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ കപ്പാസിറ്ററിലൂടെയുള്ള വൈദ്യുതധാരയ്ക്ക് സ്ഥിരമായ അവസ്ഥയിൽ ശരാശരി പൂജ്യം മൂല്യമുണ്ടാകും കൂടാതെ ഔട്ട്പുട്ട് ലോഡിലൂടെയുള്ള കറന്റ് ശുദ്ധമായ DC യിലായിരിക്കും അതിനാൽ ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് തരംഗരൂപങ്ങൾ നിർമ്മിക്കാം തരംഗരൂപങ്ങളെ അടിസ്ഥാനമാക്കി നമുക്ക് വിവിധ ഘടകങ്ങളുടെ റേറ്റിംഗ് മൂല്യങ്ങൾ വായിക്കാം ഇനി നമുക്ക് x y ആക്സിസ് എന്നിവ സ്ഥാപിച്ച് തുടങ്ങാം ഇപ്പോൾ എനിക്ക് ഇവിടെ സമയ ആക്സിസായ x ആക്സിസ് വേണം y ആക്സിസിൽ നമുക്ക് മൂന്ന് പ്രധാന കാര്യങ്ങൾ ഉണ്ട് Vg Vg ഈ ഘട്ടത്തിൽ നമ്മൾ പ്രയോഗിക്കുന്ന ഗേറ്റ് സിഗ്നൽ അല്ലാതെ മറ്റൊന്നുമല്ല ബാറ്ററി വോൾട്ടേജുമായി ആശയക്കുഴപ്പത്തിലാവുമെന്നതിനാൽ ഞാൻ ഇത് Vb ആയി ഇടാൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ നമ്മൾ സിമുലേഷനിൽ സൂചിപ്പിച്ചതുപോലെ ഞാൻ ഇതിനെ Vg എന്ന് വിളിക്കുന്നു ഇത് ഓൺ അല്ലെങ്കിൽ ഓഫ് ചെയ്യാനുള്ള സിഗ്നലാണ് അപ്പോൾ എന്താണ് ആ സിഗ്നൽ അതിനുമുമ്പ് നമ്മൾ കാണേണ്ട മറ്റൊരു പ്രധാന വേരിയബിൾ വോൾട്ടേജ് പോൾ വോൾട്ടേജാണ് ഗ്രൌണ്ടുമായി അപേക്ഷിച്ച് ഈ പോയൻറ് P യിലെ വോൾട്ടേജ് ആണ് പോൾ വോൾട്ടേജ് കറൻറ് എന്നത് ഇൻഡക്റ്റർ കറന്റ് ആണ് ഇപ്പോൾ വോൾട്ടേജ് ട്രാൻസിസ്റ്ററിന്റെ റേറ്റിംഗ് വോൾട്ട് സെക്കൻഡ് ബാലൻസ് പരിശോധിക്കുന്നതിന് ഇൻഡക്ടറിലുടനീളമുള്ള വോൾട്ടേജ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഈ ഡയോഡ് റേറ്റിംഗിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പോൾ വോൾട്ടേജ് നൽകും ഇൻപുട്ട് കറന്റ് ഡയോഡിലൂടെയുള്ള കറന്റ് ലോഡിലൂടെയും കപ്പാസിറ്റൻസിലൂടെയും ഉള്ള കറന്റ് എന്നിവയെക്കുറിച്ചുള്ള ധാരാളം വിവരങ്ങൾ ഇൻഡക്ടർ കറൻറ് നൽകും അതിനാൽ നമുക്ക് അവ ഓരോന്നായി നോക്കാം വോൾട്ടേജിനായി ഞാൻ ഇത് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യട്ടെ അതിനാൽ ഇതാണ് തരംഗരൂപം ഈ പവർ അർദ്ധചാലക സ്വിച്ചിന്റെ ബേസിലോ ഗേറ്റിലോ നാം കാണുന്ന വോൾട്ടേജ് തരംഗരൂപം പൾസ് കൂടുതലുള്ള സമയം സ്വിച്ച് ഓണാണ് പൾസ് കുറയുമ്പോൾ ഈ സ്വിച്ച് ഓഫ് ആണ് ആ സമയത്ത് ഡയോഡ് ഫ്രീ വീലിംഗ് ആണ് അതിനാൽ ഈ സമയം dTs സമയവും ഈ സമയം Ts സമയവുമായിരിക്കും ഇതാണ് ഓൺ ടൈം ഇത് ഓഫ് ടൈം അതിനാൽ നമ്മൾ അവയെ അതിനനുസരിച്ച് അടയാളപ്പെടുത്തും അതിനാൽ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യട്ടെ അതിനാൽ ഇതാണ് dTs സമയം ഇതാണ് 1 - dTs സമയം ഇപ്പോൾ അത്തരമൊരു തരംഗരൂപം ഞങ്ങൾ ഇപ്പോൾ ഗേറ്റിൽ പ്രയോഗിക്കും അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇത് ഓണായിരിക്കുമ്പോൾ Vin ധ്രുവത്തിലേക്ക് വരുന്നു അതിനാൽ പോൾ വോൾട്ടേജ് Vin മൂല്യമായിരിക്കും ഇത് ഓഫായിരിക്കുന്ന സമയത്ത് ഡയോഡ് ഈ പാത ഫ്രീ വീലിംഗ് ചെയ്യുകയും പോൾ വോൾട്ടേജ് ഗ്രൌണ്ടുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു അതിനാൽ അത് 0 ആയിരിക്കും നമുക്ക് അത് അടയാളപ്പെടുത്താം അതിനാൽ ഞാൻ ഈ തരംഗരൂപം ഇവിടെ സ്ഥാപിക്കാൻ പോകുന്നു ഇവിടെ ദൃശ്യമാകുന്ന നീല നിറത്തിലുള്ള തരംഗരൂപം പോൾ വോൾട്ടേജ് തരംഗമാണ് Q ഓൺ ആയിരിക്കുന്ന സമയത്ത് പോൾ വോൾട്ടേജ് കൂടുതലായിരിക്കുകയും അത് Vin മൂല്യവുമാണ് ഞാനത് Vin എന്ന ചിഹ്നത്താൽ സൂചിപ്പിക്കട്ടെ ഇപ്പോൾ ഇതിന് ശരാശരി മൂല്യമുണ്ട് അതിനാൽ ശരാശരി മൂല്യം ഇതുപോലുള്ള ഒരു വരി ഉപയോഗിച്ച് സൂചിപ്പിക്കാം അതിനാൽ ഔട്ട്പുട്ടിൽ നിങ്ങൾ കാണുന്ന DC മൂല്യം ഇതാണ് കാരണം ഇതാണ് ഇതിന്റെ ശരാശരി ഈ Vin ന്റെ ശരാശരി എന്താണ് ഈ പ്രദേശവും ഈ ഭാഗവും ശരാശരി തരും ഇതിന്റെ താഴെ നികത്തിയാൽ നിങ്ങൾക്ക് ഒരു നിരപ്പായത് ലഭിക്കും അത് നമ്മുടെ Vo ആണ് Vo എന്നത് dVin ആണ് അത് തരംഗരൂപത്തിന്റെ ശരാശരിയാണ് ഇപ്പോൾ ഞാൻ അമ്പടയാളം സൂചിപ്പിക്കുന്ന Vo യിലെ ശരാശരി എടുക്കുകയാണെങ്കിൽ Vin മൈനസ് Vo ആയിരിക്കും ശരാശരി മൂല്യത്തിൽ നിന്ന് 0 വരെയുള്ള ഈ ആംപ്ലിറ്റ്യൂഡ് Vo ആയിരിക്കും അതിനാൽ ഈ ഭാഗം യഥാർത്ഥത്തിൽ നിങ്ങൾ ഇൻഡക്ടറിലുടനീളം കാണുന്ന തരംഗരൂപമായിരിക്കും അതിനാൽ ഭാഗം ശരാശരിയേക്കാൾ മുകളിലും ഒരെണ്ണം ശരാശരിയേക്കാൾ താഴെയുമാണെന്ന് നിങ്ങൾ കാണുന്നു അതിനാൽ ആ മഞ്ഞ ഭാഗമാണ് ഇൻഡക്ടറിലുടനീളം ദൃശ്യമാകുന്നത് ശരാശരി മൂല്യത്തിന് മുകളിലും താഴെയുമുള്ള തരംഗരൂപം മഞ്ഞയുടെ മുകൾ ഭാഗവും മഞ്ഞ ഭാഗത്തിന്റെ താഴത്തെ ഭാഗവും ചെയ്യുന്ന വോൾട്ട് സെക്കൻഡ് ബാലൻസ് ഉണ്ടായിരിക്കണം അതിനാൽ തരംഗരൂപത്തിന്റെ മഞ്ഞ ഭാഗത്തെ VL അല്ലെങ്കിൽ ഇൻഡക്റ്ററിലുടനീളമുള്ള വോൾട്ടേജ് എന്ന് വിളിക്കുന്നു അതിനാൽ ഈ വേവ് ഇവിടെ പോൾ വോൾട്ടേജിൽ വളരെയധികം വിവരങ്ങൾ ഉണ്ട് ഇത് നിങ്ങൾക്ക് ശരാശരി ഔട്ട്പുട്ട് നൽകുന്നു ഇത് നിങ്ങൾക്ക് ഇൻഡക്ടറിലുടനീളമുള്ള വോൾട്ടേജും വോൾട്ട് സെക്കൻഡ് ബാലൻസും നൽകുന്നു ഇത് ഉപയോഗിച്ച് നമുക്ക് ഈ രണ്ട് ഘടകങ്ങളും റേറ്റുചെയ്യാനാകും ഇപ്പോൾ ഈ കാലയളവിൽ നമുക്ക് നോക്കാം dTs കാലയളവിൽ ട്രാൻസിസ്റ്റർ ഓണാണ് ഇവിടെ ട്രാൻസിസ്റ്റർ പോൾ വോൾട്ടേജിൽ ആണെങ്കിൽ Vin ഇവിടെയാവും ഡയോഡിന്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്തായിരിക്കണം ഡയോഡിന്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് Vin ആയിരിക്കണം അല്ലെങ്കിൽ Vin നേക്കാൾ വലുതായിരിക്കണം കാരണം ഈ ഡയോഡിന് Vin ന് തുല്യമായ പൊട്ടൻഷ്യൽ മൂല്യത്തെ നേരിടേണ്ടിവരും ഇപ്പോൾ ഇത് ഓഫാണെന്നും ഇത് ഫ്രീ വീലിംഗ് ആണെന്നും പറയാം അതിനാൽ ഇത് ഫ്രീ വീലിംഗ് ചെയ്യുമ്പോൾ ഇത് ഗ്രൌണ്ടിലേക്ക് വലിച്ചിടുന്നു അതിനാൽ എമിറ്റർ ഗ്രൌണ്ടിലേക്ക് വലിച്ചിടുന്നു ഇത് Vin ആണ് അതിനാൽ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഈ BJT അല്ലെങ്കിൽ മറ്റേതെങ്കിലും പവർ അർദ്ധചാലക സ്വിച്ചിന്റെ വോൾട്ടേജ് താങ്ങാനുള്ള ശേഷി ഈ മൂല്യമായ Vin ആയിരിക്കണം അതിനാൽ ഇത് തരംഗരൂപവും പോൾ വോൾട്ടേജ് തരംഗരൂപവും നോക്കുന്നതിലൂടെ ഈ രണ്ട് ഉപകരണങ്ങളുടെയും രണ്ട് പ്രധാന റേറ്റിംഗുകൾ നമ്മൾ കണ്ടെത്തി സ്വിച്ചിന്റെ വോൾട്ടേജ് താങ്ങാനാവുന്ന റേറ്റിംഗ് വോൾട്ടേജ് താങ്ങാനുള്ള റേറ്റിംഗ് അല്ലെങ്കിൽ ഡയോഡിന്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഇനി നമുക്ക് ഇൻഡക്ടർ കറന്റ് നോക്കാം ഞാൻ ഇവിടെ ഒരു പച്ച വര വരച്ചിട്ടുണ്ട് ഇവിടെയുള്ള പച്ച വര ഇൻഡക്ടർ കറന്റല്ല പക്ഷേ ഔട്ട്പുട്ടിലുടനീളം വളരെ നിസ്സാരമായ തരംഗങ്ങൾ അനുമാനിച്ച് ലോഡിലൂടെ ഒഴുകുന്നത് കറന്റാണ് ഞാൻ ഇത് ഒരു നേർരേഖയിലൂടെ ഏകദേശം കണക്കാക്കിയിട്ടുണ്ട് ഇത് ലോഡിലൂടെ ഒഴുകുന്ന DC കറന്റാണ് അതിനെ നമ്മൾ Io എന്ന് വിളിക്കും അതിനാൽ ഇതാണ് Io ട്രാൻസിസ്റ്റർ Q ഓൺ ആയിരിക്കുമ്പോൾ ഇൻഡക്ടറിലൂടെയുള്ള കറന്റ് എങ്ങനെയായിരിക്കും ഇവിടെ വോൾട്ടേജ് Vin ഇവിടെ വോൾട്ടേജ് Vo ആണ് അതിനാൽ സ്ഥിരമായ അവസ്ഥയിൽ Vin Vo ഇൻഡക്ടറിലുടനീളം പ്രയോഗിക്കുന്നു അതിനാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ ഞാൻ റൈറ്റിംഗ് പാഡ് എടുക്കട്ടെ അതിനാൽ ഈ ഇൻഡക്റ്റർ പരിഗണിക്കുക ഈ VL ൽ ഉടനീളം വോൾട്ടേജ് സ്വീകരിക്കുന്നു ഇത് ചില സൂചികയിൽ Vin Vo ന് തുല്യമാണ് അതിനാൽ VL i എന്നത് ഇൻഡക്ടറിലൂടെ ഒഴുകുന്ന കറന്റ് ഇത് VL L അനുപാതം അല്ലെങ്കിൽ അത് L അനുപാതം ആണെന്ന് നമുക്കറിയാം അതിനാൽ ഇതാണ് അല്ലെങ്കിൽ വൈദ്യുത തരംഗരൂപത്തിന്റെ സ്ലോപ്പ് അതിനാൽ ഈ സ്ലോപ്പിൽ വൈദ്യുത തരംഗരൂപം വർദ്ധിക്കണം അതിനാൽ ഞാൻ ഈ സ്ലോപ്പ് വരയ്ക്കുകയാണെങ്കിൽ ഇൻഡക്ടറിലുടനീളമുള്ള വോൾട്ടേജ് ആയിരിക്കുമ്പോൾ അത് ഇതുപോലെ വർദ്ധിക്കണം കാരണം Vin ഒരു കോൺസ്റ്റന്റ് ആണ് Vo ഒരു കോൺസ്റ്റന്റ് ആണ് L എന്നത് അറിയപ്പെടുന്ന കോൺസ്റ്റന്റ് ആണ് അതിനാൽ റേറ്റ് രേഖീയമായത് ആയിരിക്കണം ഇത് L ആണ് സ്വിച്ച് ഓഫ് ആകുന്ന സമയത്ത് ഇൻഡക്ടറിന്റെ ഈ വശം 0 ആകുന്നതും ഇവിടെ അത് Vo ആണെന്നും ഇവിടെ പ്രയോഗിക്കുന്നത് Vo ആണെന്നും നമ്മൾ നേരത്തെ കണ്ടു അതിനാൽ അത്തരം സാഹചര്യങ്ങളിൽ di നിരക്ക് എത്രയായിരിക്കും എന്നത് VLL ആയിരിക്കും അത് പിന്നീട് Vo L ആകും Vo L നെഗറ്റീവ് സ്ലോപ്പിനെ സൂചിപ്പിക്കുന്നു അതിനാൽ ഇത് ഈ നിരക്കിൽ വീഴാൻ തുടങ്ങണം അതിനാൽ ഇത് VoL ആയിരിക്കും നെഗറ്റീവ് സ്ലോപ്പുകളും വീഴുന്നു തുടർന്നുള്ള സൈക്കിളിൽ വീണ്ടും ഈ രീതിയിൽ പോയി വീഴാൻ തുടങ്ങണം അതിനാൽ ഇത് ഇൻഡക്റ്ററിലൂടെയുള്ള വൈദ്യുതധാരയുടെ ആകൃതിയായിരിക്കും ഇപ്പോൾ ശരാശരി മൂല്യം എന്തായിരിക്കും ശരാശരി മൂല്യം ഔട്ട്പുട്ടിലൂടെ ഒഴുകുന്നു അത് Io അല്ലാതെ ഒന്നുമല്ല 0 ശരാശരിയുള്ള ഘടകത്തിന്റെ റിപ്പിൾ മൂല്യം കപ്പാസിറ്ററിലൂടെ ഒഴുകും അതിനാൽ കപ്പാസിറ്ററിലൂടെ ഇതുപോലെ അടയാളപ്പെടുത്തിയതാണ് ഒഴുകാൻ പോകുന്നത് അതിനാൽ ഇതാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ ഉള്ളത് നമുക്ക് തിരികെ പോയി ആ സ്ലൈഡിലേക്ക് നോക്കാം അതിനാൽ ഇൻഡക്റ്റർ കറന്റിന്റെ ശരാശരി മൂല്യം Io ആണ് അതാണ് കടന്നുപോകുക ഇൻഡക്റ്റൻസിന്റെ റിപ്പിൾ ഘടകം കപ്പാസിറ്റൻസിലൂടെ കടന്നുപോകും ഇവിടെ റിപ്പിൾ ഘടകം ഉണ്ടാകില്ല അതിനാൽ നമുക്ക് റിപ്പിൾ ഘടകം ഇവിടെ സ്ഥാപിച്ച് നോക്കാം റിപ്പിൾ ഘടകം ഇവിടെ സ്ഥാപിച്ചതിന് ശേഷം നമ്മൾ ചർച്ച ചെയ്തതുപോലെ തരംഗത്തിന്റെ ആകൃതി ഇങ്ങനെയായിരിക്കും Q ഓൺ ആകുന്ന സമയത്ത് അത് ചാർജ് ചെയ്യുകയും ഈ ചാർജിംഗ് അപ്പ് നിരക്ക് Vin - Vo L ആകും ഇത് ഓഫ് ആകുന്ന സമയത്ത് ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യുന്നു ഇത് ഇതുപോലെ ഫ്രീ വീലിംഗ് ആണ് അത് മൈനസ് Vo L എന്ന നിരക്കിൽ താഴേക്ക് വീഴുന്നു ഇത് ഒരു ത്രികോണം പോലെ സ്ഥിരമായ അവസ്ഥയിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ഇവിടെ നിറമുള്ള പൂരിപ്പിച്ച ഭാഗം 0 ശരാശരി ഭാഗമാണ് അതാണ് കപ്പാസിറ്റൻസിലൂടെ ഒഴുകുന്നത് പൂരിപ്പിച്ച ഭാഗം കപ്പാസിറ്റൻസ് കറന്റാണ് അതിന്റെ ശരാശരി മൂല്യം Ro യിലൂടെ ഒഴുകുന്ന കറന്റാണ് ഈ മുഴുവൻ തരംഗ രൂപവും ഇൻഡക്റ്റർ കറന്റാണ് അതിനാൽ ഘടകങ്ങളെ റേറ്റുചെയ്യുന്നതിൽ ധാരാളം വിവരങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വീണ്ടും ലഭിക്കുന്നതായി നിങ്ങൾ കാണുന്നു BJT യിലൂടെ ഒഴുകുന്ന കറന്റ് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഈ ഭാഗത്ത് മാത്രമേ കറന്റ് ഒഴുകുകയുള്ളൂ അതിനാൽ ഈ ഭാഗത്ത് മാത്രം BJT വഴിയുള്ള കറന്റ് ഒഴുകുന്നു അതിനാൽ നിങ്ങളുടെ BJT യെ നിങ്ങൾക്ക് റേറ്റുചെയ്യാനാകും അതിന് Io ന്റെ പീക്ക് കറന്റും പ്ലസ് റിപ്പിൾ പീക്ക് ഉണ്ട് അതിനാൽ റിപ്പിൾ ആംപ്ലിറ്റ്യൂഡ് ഇതുപോലെയാണ് ∆IL എന്ന് ഞാൻ പറഞ്ഞാൽ BJT യുടെ കറന്റിന്റെ റേറ്റിംഗ് Io ∆IL2 ആയിരിക്കും അത് ഈ പീക്ക് ആയിരിക്കും അത് പീക്ക് കറന്റായിരിക്കും ശരാശരി കറൻറ് റേറ്റിംഗ് എന്നത് Io ഇന്റു ഡ്യൂട്ടി സൈക്കിൾ d ആണ് ഡയോഡിന് ഇത് ഇതുപോലെ ദൃശ്യമാകും ഈ സമയത്ത് സ്വിച്ച് ഓഫ് ആകുമ്പോഴെല്ലാം ഡയോഡ് ഫ്രീ വീലിംഗ് ആണ് ഈ സമയത്ത് ഡയോഡിലൂടെ കറന്റ് ഒഴുകും അതിലേക്ക് വിഭജിച്ച അതേ ഇൻഡക്ടർ കറന്റ് ആണ് അതിനാൽ ഡയോഡിനും അതേ പീക്ക് കറന്റ് മൂല്യം Io ∆IL2 ഉണ്ടായിരിക്കണം ശരാശരി മൂല്യം Io യുടെ മൂല്യമായിരിക്കും അതിനാൽ ഇൻപുട്ടിലൂടെ ഒഴുകുന്ന വൈദ്യുതധാരയുടെ മൂല്യവും ഡയോഡ് 2 ലൂടെ ഒഴുകുന്ന വൈദ്യുതധാരയുടെ മൂല്യവും ഇതുവഴി നിങ്ങൾക്ക് ലഭിക്കും ഇപ്പോൾ നിങ്ങൾ സിമുലേഷൻ നടത്തുമ്പോൾ വ്യക്തമായിരിക്കേണ്ട നിർണായക തരംഗരൂപങ്ങളാണ് ഇവ നിങ്ങൾ യഥാർത്ഥത്തിൽ സിമുലേഷനിൽ ഈ ഇഫക്റ്റുകൾ നിരീക്ഷിക്കാൻ ശ്രമിക്കണം ഈ തരംഗരൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് കപ്പാസിറ്റർ കറന്റിന്റെ തരംഗരൂപമാണെന്ന് കാണുക കപ്പാസിറ്ററിലൂടെ ഒഴുകുന്ന കപ്പാസിറ്റർ കറന്റ് ഈ ലൈനിൽ ഇൻഡക്റ്റർ കറന്റ് ആണെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ 0 ലൈനായിരിക്കും Io ലൈൻ ആയിരിക്കും ഇനി കപ്പാസിറ്ററിലൂടെ ഒഴുകുന്ന കറന്റ് നമുക്ക് പരിഗണിക്കാം ഈ ഗ്രീൻ ലൈൻ 0 ആണെന്ന് കരുതുക ലോഡ് സൈഡിലേക്ക് ശരാശരി Io ഘടകം പോകില്ല ഇപ്പോൾ കപ്പാസിറ്ററിൽ പ്രധാനം ചാർജ്ജ് ചെയ്ത ബാലൻസിനും സെക്കൻഡ് ബാലൻസിനും ഈ ഏരിയ ഈ ഏരിയയ്ക്ക് തുല്യമായിരിക്കണം എന്നതാണ് അതിനാൽ കപ്പാസിറ്ററിലേക്ക് ഇട്ടിരിക്കുന്ന ചാർജിന്റെ അളവ് പുറത്തെടുത്ത ചാർജിന്റെ അളവിന് തുല്യമായിരിക്കണം അതിനാൽ ഇത് ഡെൽറ്റ Q ആയിരിക്കും ഇപ്പോൾ കപ്പാസിറ്റർ തരംഗരൂപങ്ങൾ നോക്കുമ്പോൾ ഇൻഡക്ടർ കറന്റ് കാന്തികമായി ചാർജ്ജ് ചെയ്യുന്ന സമയമാണിതെന്ന് നമുക്കറിയാം അതിനാൽ ഇത് dt ആണ് മൈനസ് Vo L ന്റെ സ്ലോപ്പുമായി ഇൻഡക്റ്റർ കറന്റ് വീഴുന്ന സമയമാണിത് അതിനാൽ ഇത് 1- d Ts ആയിരിക്കണം എന്നിരുന്നാലും ഈ ത്രികോണത്തിന്റെ മുകളിലെ ത്രികോണവും താഴെയുള്ള വിപരീത ത്രികോണവും സമാനമായ ത്രികോണങ്ങളാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ മൊത്തം ഉയരം ∆IL ആണെന്ന് നിങ്ങൾ കാണുമ്പോൾ ഈ ത്രികോണത്തിന്റെ ഉയരം ∆IL 2 ആണ് ത്രികോണത്തിന്റെ ഈ ഭാഗത്തിന്റെ ഉയരം കൂടാതെ ∆IL 2 അതിനാൽ ബേസുകളും തുല്യമാണ് കാരണം അവ സമാന ത്രികോണങ്ങളായതിനാൽ ഉയരം തുല്യമാണ് കൂടാതെ ബേസ് Ts 2 ആണെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാൻ കഴിയും അതിനാൽ ∆IL 2 ൽ നിന്നു ∆IL 2 ലേക്ക് പോകുന്നു ഇത് ഒരു നേർരേഖയാണ് കപ്പാസിറ്ററിന്റെ കാര്യത്തിൽ 0 ൽ ഉള്ള മധ്യബിന്ദു പകുതി ദൂരവും അതുപോലെ തന്നെ മധ്യബിന്ദു താഴേയ്ക്ക് വരുന്നത് സമയത്തിന്റെ പകുതി ദൂരവും ആയിരിക്കും അതിനാൽ ഇത് Ts 2 ആയിരിക്കും മറ്റ് ബേസും Ts 2 ആയിരിക്കും അതിനാൽ ഇപ്പോൾ നമുക്ക് ഈ ത്രികോണം നോക്കാം ത്രികോണത്തിന്റെ വിസ്തീർണ്ണം നിങ്ങൾക്ക് ചാർജ് നൽകും അതിനാൽ ചാർജ്ജ് ത്രികോണത്തിന്റെ ഉയരം 12 ബേസ് ആയിരിക്കും അതായത് 12 Ts 2 ത്രികോണത്തിന്റെ ഉയരം ∆IL 2 ആണ് ഇത് Ts∆IL 8 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ∆IL 8 മടങ്ങ് fs അതായത് സ്വിച്ചിംഗ് ഫ്രീക്വൻസി Ts എന്നത് സ്വിച്ചിംഗ് കാലയളവാണ് fs സ്വിച്ചിംഗ് ഫ്രീക്വൻസി ആണ് ഇപ്പോൾ ഡെൽറ്റ Q എന്നത് കപ്പാസിറ്ററിലെ ചാർജിലെ മാറ്റമാണ് ഇത് C∆VV കപ്പാസിറ്ററിന്റെ ഓപ്പറേഷൻ വഴിയാണ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ ഇത് ∆IL 8fs ആണെന്ന് നമുക്കറിയാം അതിനാൽ C എന്നത് ∆IL 8fs ∆V ന് തുല്യമാണെന്ന് നമുക്ക് കണ്ടെത്താനാകും ബക്ക് കൺവെർട്ടറിനായി നിങ്ങൾ ഇടേണ്ട കപ്പാസിറ്റൻസിന്റെ മൂല്യം കണ്ടെത്തുന്നതിന് നിങ്ങൾക്ക് ഉപയോഗിക്കാനാകുന്ന ഒരു പ്രധാന ബന്ധമാണിത് ഇപ്പോൾ ഈ കാര്യങ്ങളിൽ നിന്ന് fs എന്നത് ഒരു ഡിസൈൻ ഘട്ടമാണ് അത് കപ്പാസിറ്റൻസിൽ ഉടനീളമുള്ള റിപ്പിൾ ആണെന്ന് കരുതുന്ന ∆V എന്നത് ഒരു ഔട്ട്പുട്ട് റിപ്പിൾ സ്പെക് ആയി ലഭിക്കുന്നു കപ്പാസിറ്റർ ഒരു ഡിസൈൻ സ്പെക് കൂടിയാണ് കപ്പാസിറ്ററിന് ഇതിനപ്പുറം റിപ്പിൾ ഉണ്ടാകരുത് ഇൻഡക്ടർ രൂപകൽപ്പന ചെയ്യുമ്പോൾ ∆IL ന്റെ മൂല്യവും ഒരു സ്പെക് ആണ് ∆IL മൂല്യം Iomax ന്റെ ഏകദേശം 10 ശതമാനമായി കണക്കാക്കുന്നത് നിങ്ങൾക്ക് കാണാം അതിനാൽ എനിക്ക് ഒരു ഡിസൈൻ ഉണ്ട് ആളുകൾ ഉപയോഗിക്കുന്ന ഡിസൈൻ മൂല്യം ആരംഭിക്കുന്നു അല്ലെങ്കിൽ ചില സ്പെസിഫിക്കേഷനുകളിൽ Io യുടെ ഏറ്റവും കുറഞ്ഞ മൂല്യം വ്യക്തമാക്കിയിരിക്കുന്നു അതിനാൽ Io യുടെ ഏറ്റവും കുറഞ്ഞ മൂല്യത്തെ അടിസ്ഥാനമാക്കി ∆IL മൂല്യം ലഭിക്കും അതിനാൽ ഇൻഡക്ടറിന്റെ മൂല്യം കണ്ടെത്താൻ ഇൻഡക്റ്റർ നോക്കാം ∆IL ന്റെ മൂല്യം കണ്ടെത്തുന്നത് വ്യക്തമാകും അതിനാൽ ∆IL ∆V fs എന്നിവയുടെ മൂല്യം അറിഞ്ഞുകൊണ്ട് കപ്പാസിറ്റർ മൂല്യം കണക്കാക്കാൻ കഴിയുമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും fs അറിയാം ∆V ഡിസൈൻ സ്പെക്കിൽ നിന്നാണ് വരുന്നത് ∆IL ഉം ഡിസൈൻ സ്പെക്കിൽ നിന്നും വരുന്നു അതിനാൽ നമുക്ക് ഇപ്പോൾ ഇൻഡക്ടർ L ന്റെ മൂല്യം കണ്ടെത്തുന്നത് നോക്കാം അതിനാൽ കറന്റിന്റെ കാര്യത്തിൽ അത് Vin -Vo L എന്ന നിരക്കിൽ ഉയരുകയും പിന്നീട് - Vo L എന്ന നിരക്കിൽ അത് കുറയുകയും ചെയ്യുന്നുവെന്ന് നമുക്കറിയാം അതിനാൽ ബക്ക് കൺവെർട്ടറിന്റെ കാര്യത്തിൽ ഇൻഡക്ടർ കറന്റിന്റെ ശരാശരി മൂല്യം Io എവിടെ ആണ് അതിനാൽ ഇത് നമ്മൾ ഇപ്പോൾ കണ്ടു ഇതിനായി വിവിധ തരംഗരൂപങ്ങൾ നമ്മൾ വിവിധ തരംഗരൂപങ്ങൾ പഠിക്കുമ്പോൾ ഇൻഡക്ടർ കറന്റ് ഫാരഡെയുടെ നിയമനുസരിച്ച് പോകുന്നു VL ഇൻഡക്ടറിലുടനീളം ഉള്ള വോൾട്ടേജ് ന് തുല്യമാണ് VL L ഉണ്ട് അതിനാൽ ഇതാണ് ഇപ്പോൾ ഇവിടെയുള്ളത് നിങ്ങൾക്ക് സ്ലോപ്പുകളിൽ ഏതെങ്കിലും ഉപയോഗിക്കാം ഔട്ട്പുട്ടിലെ ഒരേയൊരു വേരിയബിളാണ് ഫാളിങ് സ്ലോപ്പ് അതിനാൽ നമുക്ക് അത് ഉപയോഗിക്കാം അതിനാൽ ഈ നിരക്കിനെ കുറിച്ച് പറയട്ടെ ഈ സ്ലോപ്പിന്റെ നിരക്കിന്റെ കേവല മൂല്യം ഞാൻ എടുക്കും അത് ഡെൽറ്റ ആണ് അവയെല്ലാം രേഖീയ നേർരേഖയായതിനാൽ ആളുകൾ ഇതിനെ ∆IL ∆T എന്ന് പറയുന്നു ഈ പ്രത്യേക ബക്ക് കൺവെർട്ടർ വേവ്ഫോം കേസിൽ ∆IL ഇത്രയും ആണ് അതിനാൽ ഈ സമയത്തിനുള്ളിൽ സമയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ∆IL ൽ മാറ്റമുണ്ട് അതിനാൽ ഈ സമയം ബക്ക് കൺവെർട്ടർ കേസിന് വൺ മൈനസ് dTs ആയിരുന്നു നിങ്ങൾക്ക് മുകളിലേക്കുള്ള സ്ലോപ്പിലും ഇത് ചെയ്യാം നിങ്ങൾക്ക് അതേ ഫലം ലഭിക്കും അതിനാൽ ഇത് ∆IL തന്നെയാണ് അതിനാൽ ഇത് ∆IL Ts അല്ലാതെ ഒന്നുമല്ല അതിനാൽ ഈ കാലയളവിൽ ഞങ്ങൾക്ക് ഈ നിരക്ക് Vo L ഉണ്ട് അതിനാൽ ഞങ്ങൾ ഇവിടെ എഴുതുന്നത് Vo L എന്നത് ∆IL ആയിരിക്കും അല്ലെങ്കിൽ L എന്നത് ഈ സമവാക്യം പുനഃക്രമീകരിക്കുമ്പോൾ Vo ∆IL fs ന് തുല്യമാകുമെന്ന് നിങ്ങൾ കാണും അതിനാൽ ഞാൻ അത് fs ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കും കാരണം fs എന്നത് മറ്റൊരു ഡിസൈൻ സ്പെക് ആണ് അത് സാധാരണയായി നൽകിയിരിക്കുന്നത് ഡ്യൂട്ടി സൈക്കിളാണ് അതിനാൽ L ന്റെ പരമാവധി മൂല്യം ലഭിക്കാൻ നമുക്ക് d ന്റെ ഏറ്റവും കുറഞ്ഞ മൂല്യമായ d മിനിറ്റ് ഉപയോഗിക്കാം അതിനാൽ നിങ്ങൾ L max പരിഗണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് Vo dmin ∆IL fs ലഭിക്കും ഇപ്പോൾ dmin ന്റെ മൂല്യം എങ്ങനെ നേടാം Vo യുടെ മൂല്യം എങ്ങനെ നേടാമെന്ന് ഇപ്പോൾ അറിയാം Vo എന്നത് dVin ന് തുല്യമാണ് ഇപ്പോൾ ഇതിൽ Vin നൽകിയിരിക്കുന്നു Vo എന്നത് സാധാരണയായി സ്പെക് ആണ് Vin എന്നത് ഒരു ഇൻപുട്ട് സ്പെക് ആണ് അതിനാൽ d യഥാർത്ഥത്തിൽ കണക്കാക്കാവുന്നതാണ് അതിനാൽ ഞങ്ങൾ d Vo Vin കണക്കാക്കുന്നു സാധാരണയായി Vo നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ടെന്ന് നിങ്ങൾ കാണും അത് ഒരു സ്ഥിരമായ മൂല്യമായിരിക്കണം Vin ന്റെ വ്യത്യാസങ്ങൾക്കിടയിലും ഇത് നിയന്ത്രിക്കപ്പെടണം അതിനാൽ d എന്നത് Vo Vinmax അല്ലെങ്കിൽ Vo Vinmin അതിനിടയിലുള്ള ഏതെങ്കിലും മൂല്യവും ആയിരിക്കാമെന്ന് നിങ്ങൾ കാണും അതിനാൽ Vo Vinmax dmin മൂല്യവും Vo Vinmin dmax മൂല്യവും ഉള്ള പരിമിതപ്പെടുത്തുന്ന മൂല്യങ്ങളായിരിക്കാം ഇത് അതിനാൽ നമ്മൾ കണക്കുകൂട്ടുന്നത് ഇങ്ങനെയാണ് Vinmax Vinmin എന്നിവ ഇൻപുട്ട് ടോളറൻസ് സ്പെക്കിൽ നിന്ന് കണ്ടെത്തി അതിനാൽ നിങ്ങൾക്ക് dmin dmax എന്നിവ കണ്ടെത്താം തുടർന്ന് L ന്റെ മൂല്യം കണ്ടെത്താൻ ഈ dmin മൂല്യം ഇവിടെ ഉപയോഗിക്കാം ക്ഷമിക്കണം ഇത് മിനിമം ഡ്യൂട്ടി സൈക്കിളിനായിരുന്നു മറ്റേതൊരു ഡ്യൂട്ടി സൈക്കിളുകൾക്കും L ന്റെ മൂല്യം മറ്റേതെങ്കിലും ഡ്യൂട്ടി സൈക്കിളുകൾ പരിപാലിക്കാൻ പര്യാപ്തമായിരിക്കും ഇപ്പോൾ മറ്റൊരു പ്രശ്നം ഇവിടെയുണ്ട് Vo എന്നത് ഒരു സ്പെക് ആണ് f എന്നത് ഒരു സ്പെക് എഫ് ആണ് f s എന്നത് ഒരു സ്പെക് ആണ് Vo അറിയാം d അറിയാം അതിനാൽ IL ഒഴികെയുള്ള എല്ലാം കണക്കാക്കാൻ ഉപയോഗിക്കാം കൂടാതെ ഒരു ആരംഭ മൂല്യമായി നിങ്ങൾ Io max ലോഡ് കറന്റിന്റെ 10 ശതമാനം ഇത് ഉപയോഗിക്കുകയും L ന്റെ കുറച്ച് മൂല്യം കണ്ടെത്തുകയും ചെയ്യുക മറ്റൊരു വഴിയും ഉണ്ട് ഇനിപ്പറയുന്ന സ്പെസിഫിക്കേഷനും ചിലപ്പോൾ നൽകിയിരിക്കുന്നു നിങ്ങൾക്കത് കാണാം ഈ സമവാക്യം ഞാൻ എഴുതട്ടെ L Vo ∆IL fs അതിനാൽ ഇൻഡക്ടറിന്റെ കാര്യത്തിൽ ഇൻഡക്ടർ കറന്റ് ഈ രീതിയിൽ മുകളിലേക്കും താഴേക്കും പോകുന്നതായി നിങ്ങൾ കാണുന്നു ഇവിടെ നിങ്ങൾക്ക് Io ഉണ്ട് ഇതാണ് Io ഇപ്പോൾ Ro മൂല്യം വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കും Ro മൂല്യം ഔട്ട്പുട്ട് ലോഡ് റെസിസ്റ്റൻസ് മൂല്യം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ Io കുറയുന്നത് നിങ്ങൾ കാണും അതിനാൽ Io കുറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷേ അവയുടെ ഡെൽറ്റ IL ഇവിടെയുള്ള സ്ലോപ്പുകളുടെ നിരക്ക് എന്നിവയിൽ മാറ്റമുണ്ടാകില്ലെന്ന് നിങ്ങൾ കാണുന്നു കാരണം അവ L Vo L എന്നിവയാൽ നിർണ്ണയിക്കപ്പെടുന്നു അവ ലോഡ് റെസിസ്റ്റർ മൂല്യത്തിൽനിന്ന് അല്ലെങ്കിൽ ലോഡ് കറന്റ് മൂല്യത്തിൽ നിന്ന് സ്വതന്ത്രമാണെങ്കിൽ അതിനാൽ ഈ ത്രികോണ റിപ്പിളുകളുടെ ആകൃതി ഇപ്പോഴും നിലനിൽക്കും ഒപ്പം റിപ്പിളുകളുടെ ഉയരവും നിലനിൽക്കും അതിനാൽ പരിധിയിൽ അത് സ്പർശിക്കുന്ന ലൈനുകൾ നേരെയല്ലെന്ന് നിങ്ങൾ കാണും അതിനാൽ ഇത് ഇതുപോലെ 0 വരിയിൽ സ്പർശിച്ചേക്കാം അതിനാൽ ഇത് Io min Io ന്റെ ഏറ്റവും കുറഞ്ഞ മൂല്യമായി കണക്കാക്കും Io ന്റെ മൂല്യം ഇൻഡക്റ്റർ കറന്റ് റിപ്പിൾ 0 ലൈനിൽ സ്പർശിക്കുന്നിടത്ത് Io min ആയിരിക്കും കാരണം അതിന്റെ ശരാശരി Io min ആയിരിക്കും അതിനാൽ ഈ പരിമിതപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ഇത് ഡെൽറ്റ IL ആയിരിക്കേണ്ടതായിരുന്നു അതിനാൽ ∆IL 2 എന്നത് Io മിനിമം അല്ലെങ്കിൽ ∆IL 2Io മിനിമം ആയിരിക്കുമെന്ന് നിങ്ങൾ കാണും ഇത് ∆IL മൂല്യം തിരഞ്ഞെടുക്കുന്നതിന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയാണ് Io മിനിമം വ്യക്തമാക്കിയിരിക്കുന്നിടത്ത് ∆IL രണ്ട് മടങ്ങ് Io ആയിരിക്കണം അതിനാൽ ഇത് വ്യക്തമാക്കിയിരിക്കുന്നു ഇത് ഉപയോക്താവ് വ്യക്തമാക്കിയതാണെങ്കിൽ ഡെൽറ്റ IL ന്റെ മൂല്യം കണ്ടെത്താൻ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം ഇത് വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡെൽറ്റ IL ഉപയോഗിക്കുന്നത് Io യുടെ 10 ശതമാനം ആണ് ഇങ്ങനെയാണ് നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കേണ്ടത് ഇപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി ഇത് Io മിനിമം ഇത് 0 വരിയിൽ സ്പർശിക്കുന്നു അതിനാൽ ഇത് തുടർച്ചയായ ചാലകത്തിന്റെ അതിരിലാണ് അതിനർത്ഥം നിങ്ങൾ ഇനിയും മുന്നോട്ട് പോയാൽ നമുക്ക് ത്രികോണം ഇതുപോലെ വരാം ഞാൻ ഇത് ഡോട്ടിൽ ഇടുന്നു ഒരു ദ്വിദിശ സ്വിച്ച് ഉണ്ടെങ്കിൽ ഇൻഡക്റ്റർ കറന്റ് നെഗറ്റീവ് ആയി പോകുന്നത് നിങ്ങൾ കാണും എന്നാൽ സീരീസ് സ്വിച്ച് തടയുകയാണെങ്കിൽ ഇൻഡക്റ്റർ കറന്റ് അങ്ങനെ പോകുന്നത് നിങ്ങൾ കാണും അതിനാൽ ഈ സമയത്ത് സ്ലോപ്പിലെ പെട്ടെന്നുള്ള മാറ്റമാണിത് അതിനാൽ ഇൻഡക്റ്റർ കറന്റ് 0 ൽ എത്തുന്നു സ്ലോപ്പിൽ ഒരു മാറ്റമുണ്ട് തുടർന്ന് വീണ്ടും സ്ലോപ്പിൽ മാറുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ തുടരാത്തതാണ് അല്ലെങ്കിൽ ചാലക കാലയളവ് തന്നെ തുടരാത്തതാണ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇൻഡക്ടർ കറന്റ് ഉള്ള ഒരു കാലയളവ് ഉണ്ട് ഇൻഡക്റ്റർ കറന്റ് ഇല്ലാത്ത കാലയളവും ഉണ്ട് വീണ്ടും ഉള്ള കാലയളവ് അതിനാൽ ഇത് തുടർച്ചയായ ചാലക മേഖല അല്ലെങ്കിൽ DCM ആണ് ഇത്തരത്തിലുള്ള ഒരു ഇൻഡക്ടർ കറന്റ് തരംഗരൂപത്തെ DCM എന്നും 0 ലൈനിന് മുകളിലുള്ള എല്ലാ തരംഗരൂപങ്ങളെയും ഈ തരം തരംഗരൂപം നീല അല്ലെങ്കിൽ തുടർച്ചയായ ചാലകത അല്ലെങ്കിൽ CCM എന്നിവയിൽ കാണിക്കുന്നു അതിനാൽ ഇൻഡക്ടർ കറന്റ് പ്രവർത്തിക്കുന്നത് CCM ലാണെന്നും DCM ലല്ലെന്നും നിങ്ങൾ ഉറപ്പാക്കണം കാരണം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിശകലനങ്ങളും തുടർച്ചയായ ചാലക മോഡിനാണ്